കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഈ മൊഡ്യൂളിൽ ഞാൻ IIoT യ്ക്കായുള്ള വിശകലനങ്ങളുടെ ഒരു അവലോകനം നൽകിയിരുന്നു ഇതിൽ ഞാൻ നിങ്ങൾക്ക് മെഷീൻ ലേണിംഗിന്റെ അവലോകനം നൽകാൻ പോകുന്നു അതിനാൽ മെഷീൻ ലേണിംഗ് എന്താണ് മെഷീൻ ലേണിംഗിലെ വ്യത്യസ്ത തരം അല്ലെങ്കിൽ രീതികൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നു അതിനുശേഷം അവിടെയുള്ള ചില ജനപ്രിയ സാങ്കേതികതകളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ആശയം നൽകാൻ പോകുന്നു ഇതിൽ മെഷീൻ ലേണിംഗിന്റെ ഒരു എക്സ്പോസിറ്ററി ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രയോഗിക്കാവുന്ന മെഷീൻ ലേണിംഗിനൊപ്പം എന്താണ് ഉള്ളതെന്ന് നിങ്ങളെ അറിയിക്കുക എന്നതാണ് അതിനാൽ ഈ കോഴ്സിന്റെ ഉദ്ദേശ്യം യഥാർത്ഥത്തിൽ മെഷീൻ ലേണിംഗിന്റെ ആഴത്തിലേക്ക് കടക്കുകയല്ല ആർക്കെങ്കിലും താൽപ്പര്യമുണ്ടെങ്കിൽ മെഷീൻ ലേണിംഗിനെക്കുറിച്ചും മെഷീൻ ലേണിംഗിനുള്ള വ്യത്യസ്ത സാങ്കേതികതകളെക്കുറിച്ചും അറിവ് നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമർപ്പിത കോഴ്സുകൾ ഉണ്ട് എൻപിടിഇഎല്ലിലെ കോഴ്സുകൾ മെഷീൻ ലേണിംഗിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും മെഷീൻ ലേണിംഗിനായി ആഴത്തിലുള്ള പഠനം എഐ എന്നിവയും ഉൾപ്പെടെയുള്ള വ്യത്യസ്ത രീതികളും മനസ്സിലാക്കാൻ പരാമർശിക്കാവുന്നതാണ് അതിനാൽ ഈ കോഴ്സിൽ ഞങ്ങൾ വളരെ ഉയർന്ന തലത്തിലായിരിക്കും മെഷീൻ ലേണിംഗ് എന്താണെന്നതിനെക്കുറിച്ച് ഒരു ആശയം നേടാൻ ഞങ്ങൾ ശ്രമിക്കും എന്താണ് മെഷീൻ ലേണിംഗിലും മറ്റും ഉള്ള വിശാലമായ ടെക്നിക്കുകൾ എന്തൊക്കെയാണ് അതിനാൽ മെഷീൻ ലേണിംഗിന്റെ അടിസ്ഥാനകാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ആദ്യം ശ്രമിക്കാം അപ്പോൾ ഈ യന്ത്രം എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത് മെഷീൻ ലേണിംഗിനെക്കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് മെഷീൻ ലേണിംഗ് വളരെ ജനപ്രിയമാണ് വിശകലനത്തിനായി മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്നു IIoT ഇൻഡസ്ട്രിയൽ IoT ആപ്ലിക്കേഷനുകൾക്ക് അനലിറ്റിക്സ് വളരെ ആകർഷകമാണ് അതിനാൽ മെഷീൻ ലേണിംഗ് ഒന്നുമല്ല പക്ഷേ ഇത് കൃത്രിമ ബുദ്ധിയുടെ ഒരു ഉപവിഭാഗമാണ് അതിനാൽ കൃത്രിമബുദ്ധി എന്നത് കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ശാഖയാണ് അവിടെയുള്ള ചില സ്വാഭാവിക ബുദ്ധികളെ എങ്ങനെ അടിസ്ഥാനപരമായി അനുകരിക്കാമെന്നും വ്യത്യസ്ത സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ വിവിധ കമ്പ്യൂട്ടേഷണൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ബുദ്ധിശക്തിയുള്ള ഒരു കൃത്രിമ രംഗം സൃഷ്ടിക്കാനും കഴിയും അതിനാൽ ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെക്കുറിച്ച് ചുരുക്കമായി സംസാരിച്ചു ഒരു മുൻ പ്രഭാഷണത്തിൽ നമുക്ക് കൃത്രിമബുദ്ധിയെക്കുറിച്ച് ഒരു അവലോകനം ലഭിച്ചു അതിനാൽ മെഷീൻ ലേണിംഗ് ഒന്നുമല്ല പക്ഷേ ഇത് കൃത്രിമ ബുദ്ധിയുടെ ഒരു ഉപവിഭാഗമാണ് അതിനാൽ കഴിഞ്ഞ കാലത്തെ അനുഭവം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും ഭാവിയിലേക്കുള്ള തീരുമാനങ്ങൾ എടുക്കാൻ എങ്ങനെ ശ്രമിക്കാമെന്നും മെഷീൻ ലേണിംഗ് സംസാരിക്കുന്നു അതിനാൽ മെഷീൻ ലേണിംഗ് അടിസ്ഥാനപരമായി യന്ത്രം വ്യക്തമായി പ്രോഗ്രാം ചെയ്തിരിക്കുന്നതിനെ അടിസ്ഥാനമാക്കി പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനുപകരം കഴിഞ്ഞ അനുഭവത്തെ അടിസ്ഥാനമാക്കി വ്യത്യസ്ത തീരുമാനങ്ങൾ എടുക്കാൻ മെഷീനുകളെ പ്രാപ്തമാക്കും ഡാറ്റ സയൻസ് മെഷീൻ ലേണിംഗ് ടെക്നിക്കുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നു അതിനാൽ ഡാറ്റാ സയൻസ് ഒരു ഉയർന്ന തലത്തിലാണെന്ന് നമുക്ക് ചിന്തിക്കാം അത് അടിസ്ഥാനപരമായി ഗണിതം കമ്പ്യൂട്ടർ സയൻസ് ഡൊമെയ്ൻ വൈദഗ്ധ്യത്തിൽ നിന്നുള്ള അറിവ് എന്നിവയുടെ ഒരു വിഭജനമാണ് അതിനാൽ ഇത് മെഷീൻ ലേണിംഗിന്റെയും ഡാറ്റ സയൻസിന്റെയും മൊത്തത്തിലുള്ള സ്ഥാനമാണ് അപ്പോൾ മെഷീൻ ലേണിംഗ് എന്താണ് കഴിഞ്ഞ ചരിത്രം മുൻകാല അറിവ് മുതലായവയെ അടിസ്ഥാനമാക്കി ഭാവിയിൽ എന്തെങ്കിലും പ്രവചിക്കുന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നതെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ അതിനാൽ മുഴുവൻ ആശയവും നിങ്ങൾ പഴയ ഡാറ്റയും നിങ്ങൾ ഉപയോഗിക്കുന്ന നിലവിലുള്ള ഡാറ്റയും ഉപയോഗിക്കുക തുടർന്ന് ഭാവി പ്രവചിക്കാനോ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനോ ശ്രമിക്കുക എന്നതാണ് അതിനാൽ യന്ത്ര പഠനത്തിന് പിന്നിലെ മുഴുവൻ ആശയവും ഇതാണ് അതിനാൽ മെഷീൻ ലേണിംഗിൽ അടിസ്ഥാനപരമായി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഭാവി പ്രവചിക്കാനോ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനോ ശ്രമിക്കുന്ന മുൻകാല ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് അതിനാൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള പരിശീലന ഡാറ്റ സെറ്റ് ആവശ്യമാണ് അത് അടിസ്ഥാനപരമായി മുൻകാലങ്ങളിൽ നിന്ന് എടുത്ത ചില നിരീക്ഷണങ്ങളുടെ ഡാറ്റയായിരിക്കും കഴിഞ്ഞ അനുഭവത്തെ അടിസ്ഥാനമാക്കി ഭാവി പ്രവചിക്കാൻ ശ്രമിക്കുക ഇതാണ് മെഷീൻ ലേണിംഗ് അതിനാൽ ഇത് മെഷീൻ ലേണിംഗിന്റെ ഒരു കാഴ്ചയാണ് മെഷീൻ ലേണിംഗിന്റെ ജനപ്രിയ കാഴ്ച മെഷീൻ ലേണിംഗിന്റെ വ്യത്യസ്ത വ്യത്യസ്ത കാഴ്ചപ്പാടുകളും ഉണ്ട് എന്നാൽ ഭാവിയിൽ പ്രവചിക്കുന്നത് മെഷീൻ ലേണിംഗിന്റെ പ്രമേയത്തിന്റെ കേന്ദ്രബിന്ദുവാണ് നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രവചനങ്ങൾ നടത്തുന്നത് എത്ര തരം ഡാറ്റ എത്ര ഡാറ്റ ഡാറ്റ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നത് അതിനാൽ ആളുകൾ ചോദിക്കുന്ന വ്യത്യസ്ത വ്യത്യസ്ത ചോദ്യങ്ങളുണ്ട് മെഷീൻ ലേണിംഗിന്റെ വ്യത്യസ്ത ഗവേഷണ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ വ്യത്യസ്ത തരം ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ നമുക്ക് മുന്നോട്ട് പോയി യന്ത്ര പഠനത്തെക്കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പോൾ മെഷീൻ ലേണിംഗ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ മെഷീൻ ലേണിംഗിന് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചില പരിശീലന ഡാറ്റ ആവശ്യമാണ് ഉദാഹരണത്തിന് ഇത് ലേബൽ ചെയ്ത അല്ലെങ്കിൽ ലേബൽ ചെയ്യാത്ത ഡാറ്റയാണ് കൂടാതെ ഈ ഡാറ്റ എടുക്കുന്ന ചില മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ നിങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും ഈ ഡാറ്റയെ അടിസ്ഥാനമാക്കി അൽഗോരിതം പരിശീലിപ്പിക്കുകയും ചില മോഡലുകൾ സൃഷ്ടിക്കുകയും ചെയ്യും കൂടാതെ ആ മോഡലുകൾ പ്രധാനമാണ് അതിനാൽ ഇവ അറിയപ്പെടുന്ന വിവരങ്ങളായിരുന്നു പരിശീലിപ്പിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്ത ഈ മോഡലുകൾ ഭാവിയിൽ അജ്ഞാത ഡാറ്റയ്ക്കായി എന്തെങ്കിലും പ്രവചിക്കാൻ ഉപയോഗിക്കും ഇത് അജ്ഞാത ഡാറ്റയാണ് ഇത് അറിയപ്പെടുന്ന ഡാറ്റയായിരുന്നു അതിനാൽ അറിയപ്പെടുന്ന ഡാറ്റയെ അടിസ്ഥാനമാക്കി സൃഷ്ടിച്ച ഈ സൃഷ്ടിച്ച മോഡൽ അജ്ഞാത ഡാറ്റയായ പുതിയ ഇൻപുട്ട് ഡാറ്റയുടെ പ്രവചനങ്ങൾക്കായി ഉപയോഗിക്കും അതിനാൽ മെഷീൻ ലേണിംഗിൽ ഈ പ്രവചനം എങ്ങനെയാണ് ചെയ്യുന്നത് അതിനാൽ വ്യത്യസ്ത മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉണ്ട് അവയെ വിശാലമായി വ്യത്യസ്ത തരങ്ങളായി തരംതിരിക്കാം ഈ മൂന്ന് പ്രധാന വർഗ്ഗീകരണങ്ങളാണ് അറിയപ്പെടുന്ന മേൽനോട്ടമില്ലാത്തതും മേൽനോട്ടത്തിലുള്ളതും ശക്തിപ്പെടുത്തുന്നതുമായ പഠനം ഇത് ഒരു അർദ്ധ മേൽനോട്ടത്തിലുള്ള പഠനമാണ് അതിനാൽ ഞങ്ങൾക്ക് മേൽനോട്ടമില്ലാത്ത മേൽനോട്ടമുള്ളതും ശക്തിപ്പെടുത്തുന്നതുമായ പഠന മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉണ്ട് അതിനാൽ മേൽനോട്ടമില്ലാത്ത പഠനം മെഷീൻ ലേണിംഗ് ഈ രീതിയിൽ സംഭവിക്കുന്നു അതിനാൽ തരംതിരിക്കേണ്ട സമാനമായ ഡാറ്റ ഗ്രൂപ്പുകളുണ്ട് അതിനാൽ മേൽനോട്ടമില്ലാത്ത മെഷീൻ ലേണിംഗിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് സമാന ഡാറ്റ ഗ്രൂപ്പുകളെ തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നതാണ് ഈ പ്രക്രിയ ക്ലസ്റ്ററിംഗ് എന്നറിയപ്പെടുന്നു ഇത് ഒരു ജനപ്രിയ മേൽനോട്ടമില്ലാത്ത പഠനമാണ് ക്ലസ്റ്ററിംഗ് ഒരു ജനപ്രിയ മേൽനോട്ടമില്ലാത്ത പഠന സാങ്കേതികതയാണ് ഇത് അടിസ്ഥാനപരമായി സമാന ഗ്രൂപ്പുകളായി ഡാറ്റ തരംതിരിക്കാൻ നിങ്ങളെ സഹായിക്കും അതിനാൽ ഡാറ്റയുടെ ആന്തരിക ഘടനയെ അടിസ്ഥാനമാക്കി ലേബൽ ചെയ്യാത്ത ഡാറ്റ സെറ്റിലാണ് ഡാറ്റയുടെ ഈ വർഗ്ഗീകരണം അല്ലെങ്കിൽ വേർതിരിക്കൽ നടത്തുന്നത് ഇവിടെ അടിസ്ഥാനപരമായി ഇത് ലേബൽ ചെയ്യാത്ത ഡാറ്റ സെറ്റാണ് ശരിയാണ് അതിനാൽ ഈ മേൽനോട്ടമില്ലാത്ത പഠനം പ്രവർത്തിക്കുന്ന ലേബൽ ചെയ്യാത്ത ഡാറ്റ സെറ്റാണ് ഇത് അത് പ്രത്യേക ഫലത്തിലേക്ക് നോക്കാതെ ഡാറ്റയുടെ ആന്തരിക ഘടനയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ ക്ലസ്റ്ററിംഗ് അൽഗോരിതങ്ങളുടെ രണ്ട് പ്രധാന വർഗ്ഗീകരണങ്ങളുണ്ട് ഒന്ന് ഹാർഡ് ക്ലസ്റ്ററിംഗ് എന്നും അറിയപ്പെടുന്നു ഹാർഡ് ക്ലസ്റ്ററിംഗ് അടിസ്ഥാനപരമായി അത് ചെയ്യുന്നത് വ്യത്യസ്തമായ വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ടാണ് മറുവശത്ത് സോഫ്റ്റ് ക്ലസ്റ്ററിംഗിന് ക്ലസ്റ്ററുകളുടെ ഓവർലാപ്പുകൾ ഉണ്ടായിരിക്കാം ചില പോയിന്റുകൾ രണ്ടോ അതിലധികമോ ക്ലസ്റ്ററുകളിൽ ഒന്നായിരിക്കാം അതേസമയം ഹാർഡ് ക്ലസ്റ്ററിംഗിൽ അത് സംഭവിക്കില്ല അൽഗോരിതങ്ങൾ മെൻസ് പോലുള്ള സാങ്കേതികവിദ്യകൾ ഡാറ്റാ പോയിന്റുകൾ ഒന്നിലധികം ക്ലസ്റ്ററുകളിൽ ഉൾപ്പെട്ടേക്കാവുന്ന സോഫ്റ്റ് ക്ലസ്റ്ററിംഗിന്റെ ഉദാഹരണമാണ് അവ്യക്തമായ യുക്തി അതിനാൽ ഇവയാണ് രണ്ട് പ്രധാന വിദ്യകൾ ഇപ്പോൾ നമുക്ക് ഈ കെ മാർഗ്ഗത്തെക്കുറിച്ച് സംസാരിക്കാം ഈ K എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം ഈ അരമണിക്കൂർ കോഴ്സിൽ ഈ വ്യത്യസ്ത മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വ്യക്തമായ ആശയം നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് അറിയാം പക്ഷേ കാര്യങ്ങൾ വീക്ഷണകോണിൽ നിലനിർത്താനും ഈ അടിസ്ഥാന അൽഗോരിതങ്ങളിൽ ഒന്ന് നിങ്ങളെ പ്രചോദിപ്പിക്കാനും ഞാൻ കരുതുന്നു ക്ലസ്റ്ററിംഗ് അൽഗോരിതങ്ങൾ അർത്ഥമാക്കുന്നത് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് ചെറിയൊരു ആശയം നൽകാൻ കഴിയും അതിനാൽ ഈ കെ അർത്ഥം അൽഗോരിതം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് അതിനാൽ K എന്നാൽ അടിസ്ഥാനപരമായി മാർഗം നിങ്ങൾക്ക് ചില പോയിന്റുകൾ ഉണ്ടെന്നും ഈ വ്യത്യസ്ത പോയിന്റുകളെ തരംതിരിക്കണമെന്നും നിങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് അതിനാൽ ഇത് നിങ്ങളുടെ X ആണെന്നും ഇത് നിങ്ങളുടെ Y ആണെന്നും നമുക്ക് പറയാം അതിനാൽ K എന്നത് ഏതെങ്കിലും പൂർണ്ണസംഖ്യയെ സൂചിപ്പിക്കുന്നു അതിനാൽ ഞങ്ങൾ 2 അർത്ഥം അൽഗോരിതം സംസാരിക്കുമെന്ന് പറയട്ടെ അതിനാൽ 2 അർത്ഥം അർത്ഥമാക്കുന്നത് നമ്മൾ രണ്ട് ക്ലസ്റ്ററുകളെക്കുറിച്ചാണ് രണ്ട് സെൻട്രോയിഡുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാണ് അതിനാൽ ഞങ്ങൾ തുടക്കത്തിൽ ആങ്കർമാരെപ്പോലെയുള്ള രണ്ട് സെൻട്രോയിഡുകൾ ഉപയോഗിച്ച് ആരംഭിക്കും ഇവ ആരംഭിക്കുന്ന തരത്തിലുള്ള ആങ്കറുകളാണ് അതിനാൽ നിങ്ങൾ ഇത് ആരംഭിച്ച് ക്രമരഹിതമായി ഈ ആങ്കറുകൾ പോയിന്റുകൾ തിരഞ്ഞെടുത്ത് നിങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകുക അതിനാൽ നമ്മൾ ഈ ഓരോ പോയിന്റുകളും 1 2 3 4 മുതലായവ എടുക്കുന്നു ഈ ആങ്കറുകൾ വിത്തുകൾ പോലെയാണ് അതിനാൽ ഞങ്ങൾ ഈ വിത്തുകളോ ആങ്കറുകളോ ഉപയോഗിച്ച് ആരംഭിക്കുന്നു ഈ ഓരോ ആങ്കർമാർക്കും ഈ 2D സ്ഥലത്ത് ഈ സ്ഥലത്തെ ഓരോ പോയിന്റുകളുടെയും സാമീപ്യം അളക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു അതിനാൽ അവസാനമായി ഈ പ്രത്യേക ആങ്കറിനോട് കൂടുതൽ അടുക്കുന്നത് ഈ സർക്കിളുകൾ പോലെയാണെന്ന് നമുക്ക് പറയാം അതേസമയം ഈ ക്രോസ് മാർക്കുകളാണ് ഈ പ്രത്യേക ആങ്കറിനോ വിത്തിനോടോ കൂടുതൽ അടുക്കുന്നത് അതിനാൽ ഞങ്ങൾ ചെയ്യുന്നത് അടുത്ത പാസിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാകും ഇത് ഇങ്ങനെയായിരിക്കും അതിനാൽ അടിസ്ഥാനപരമായി എന്താണ് സംഭവിച്ചത് രണ്ട് ക്ലസ്റ്ററുകൾ സെന്റ്രോയിഡിനോടുള്ള സാമീപ്യത്തെ അടിസ്ഥാനമാക്കിയാണ് രൂപപ്പെടുന്നത് അതിനാൽ രണ്ട് വ്യത്യസ്ത ക്ലസ്റ്ററുകൾ രൂപപ്പെടും തുടർന്ന് നിങ്ങൾ ഇവിടെ ഒരിക്കൽ കൂടി ചെയ്യേണ്ട അടുത്ത ഘട്ടം ഒരിക്കൽ കൂടി ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾക്ക് ഈ പോയിന്റുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ വീണ്ടും ഇതുപോലുള്ള ഒരു സെൻട്രൈഡ് തിരഞ്ഞെടുക്കുന്നു ഞങ്ങൾ ചെയ്ത അതേ കാര്യം തന്നെ ഞങ്ങൾ ചെയ്യുന്നു ഇതിലൂടെ നമുക്ക് ഒരു മികച്ച സെന്റ്രോയ്ഡ് ലഭിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് പുതുക്കിയ ക്ലസ്റ്റർ മാർഗങ്ങൾ ഉണ്ടാകും അതിനുശേഷം ഞങ്ങൾ ഡാറ്റാ പോയിന്റുകൾ പുനക്രമീകരിക്കും ഞങ്ങൾക്ക് ഇത് ലഭിക്കും കുരിശുകൾ അതിനാൽ ഞങ്ങൾ അഞ്ച് പോയിന്റുകളോടെ ആരംഭിച്ചു അതിനാൽ നമുക്ക് ഇവിടെയും ഒന്നുതന്നെ വേണം ഞങ്ങൾ ക്ലസ്റ്റർ കേന്ദ്രങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന അതേ കാര്യം ഞങ്ങൾ ആവർത്തിക്കുന്നു ഞങ്ങൾ ഈ പ്രക്രിയയും ആവർത്തിക്കുന്നു ഞങ്ങൾ ഡാറ്റ പോയിന്റുകൾ പുനക്രമീകരിച്ച് സർക്കിളുകളിൽ ഈ ഘട്ടം ആവർത്തിക്കുന്നു അതിനാൽ ഞങ്ങൾ എത്രത്തോളം ആവർത്തിക്കും രണ്ട് പാസുകൾക്ക് ഒരേ സെൻട്രൈഡ് ലഭിക്കുന്നതുവരെ ഞങ്ങൾ ആവർത്തിക്കുന്നു അപ്പോഴാണ് ഈ അൽഗോരിതം ഒത്തുചേരാൻ പോകുന്നത് അതിനാൽ ഞങ്ങൾ ഈ പ്രക്രിയ ആവർത്തിക്കുമ്പോൾ ഈ അൽഗോരിത്തിന്റെ രണ്ട് വ്യത്യസ്ത പാസുകൾ ലഭിക്കുകയാണെങ്കിൽ ഒരേ അല്ലെങ്കിൽ സമാനമായ സെൻട്രിഡ് അപ്പോൾ ഈ അൽഗോരിതം നിർവ്വഹിക്കുന്നത് നിർത്തും അതിനാൽ അടിസ്ഥാനപരമായി ഈ കെ അർത്ഥമാക്കുന്നത് ക്ലസ്റ്ററിംഗ് ജോലികൾക്കുള്ള മേൽനോട്ടമില്ലാത്ത പഠന സാങ്കേതികതയാണ് അതിനാൽ ഇതുപോലെ പല തരത്തിലുള്ള മറ്റ് അൽഗോരിതങ്ങളും അവ്യക്തമായി ഉണ്ട് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലുള്ള കഠിനമായ ക്ലസ്റ്ററിംഗ് ഇല്ല എന്നതാണ് അതിനാൽ നിങ്ങൾക്ക് ഹാർഡ് ക്ലസ്റ്ററിംഗ് ഇല്ല അതിനാൽ ഫസി സി അർത്ഥം അല്ലെങ്കിൽ എഫ്സിഎമ്മിൽ ഒന്നിലധികം ക്ലസ്റ്ററുകളിൽ പെടാം ഇവിടെ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്ക് ഒരു നിശ്ചിത ക്ലസ്റ്ററുകൾ ഉണ്ട് അതിൽ ഒരു പോയിന്റ് ഉൾപ്പെടുന്നു അതിനാൽ ഞങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകും അതിനാൽ ഇതാണ് കെ അർത്ഥം ഒരു ഡാറ്റാ പോയിന്റ് ഒരു ക്ലസ്റ്ററിന് മാത്രമായിരിക്കാം അതേസമയം ഫസി സി അർത്ഥത്തിൽ ഒരു ഡാറ്റ പോയിന്റ് ഒന്നിലധികം ക്ലസ്റ്ററുകളായിരിക്കാം കെ അർത്ഥം അൽഗോരിതം ശുദ്ധമായ മെഷീൻ പഠനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാൽ ഫസി സി അർത്ഥം സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് സമീപനത്തെ അവ്യക്തമായ യുക്തിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ ഇത് ഫസി സി മെൻസ് എന്നാണ് അറിയപ്പെടുന്നത് അതിനാൽ ഇത് അവ്യക്തമായ യുക്തിയെ അടിസ്ഥാനമാക്കിയുള്ളതിനാൽ കെ അർത്ഥം അൽഗോരിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എഫ്സിഎം വളരെ വേഗതയുള്ളതാണ് അതിനാൽ അടുത്തതായി മേൽനോട്ടത്തിലുള്ള പഠന അൽഗോരിതം വരുന്നു അതിനാൽ സൂപ്പർവൈസുചെയ്ത പഠന അൽഗോരിതത്തിൽ പ്രാഥമികമായി നമ്മൾ സംസാരിക്കുന്നത് ഡാറ്റ സെറ്റുകളുടെ വർഗ്ഗീകരണത്തെക്കുറിച്ചാണ് ലേബൽ ഡാറ്റ സെറ്റിൽ നിന്ന് മാപ്പിംഗ് പ്രവർത്തനം പഠിച്ചുകൊണ്ട് ഡാറ്റ സെറ്റുകളുടെ വർഗ്ഗീകരണം അതിനാൽ സൂപ്പർവൈസുചെയ്ത മേൽനോട്ടം വഹിക്കുന്നത് അർത്ഥമാക്കുന്നത് ചില തരത്തിലുള്ള ലേബൽ ഡാറ്റ സെറ്റ് ഉണ്ടായിരിക്കുകയും ഡാറ്റ സെറ്റിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ ചില വർഗ്ഗീകരണം നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് അതിനാൽ ഒരു സാങ്കേതികത അടിസ്ഥാനപരമായി മറ്റൊന്ന് തരംതിരിക്കലാണ് നിങ്ങൾക്കറിയാവുന്ന സൂപ്പർവൈസുചെയ്ത പഠനം റിഗ്രഷൻ ചെയ്യുക എന്നതാണ് അതിനാൽ വർഗ്ഗീകരണം അടിസ്ഥാനപരമായി ഔട്ട്ട്ട്പുട്ട് വേരിയബിൾ ഒരു വിഭാഗമാകുമ്പോഴാണ് റെഡ് കാറ്റഗറി അല്ലെങ്കിൽ ബ്ലൂ കാറ്റഗറി പോലുള്ള ഒരു വിഭാഗമാണ് അതേസമയം ഔട്ട്ട്ട്പുട്ട് വേരിയബിൾ ഡോളർ മൂല്യങ്ങൾ അല്ലെങ്കിൽ ഭാരം പോലുള്ള ഒരു യഥാർത്ഥ സംഖ്യയാകുമ്പോഴാണ് റിഗ്രഷൻ അതിനാൽ ഈ റിഗ്രഷൻ അല്ലെങ്കിൽ ലീനിയർ റിഗ്രഷൻ ഇത് ഒരു സൂപ്പർവൈസുചെയ്ത പഠന അൽഗോരിതം പോലെ കാണപ്പെടുന്നു ഇത് X Y മൂല്യങ്ങളുടെ തന്നിരിക്കുന്ന സന്ദർഭങ്ങളിൽ നിന്ന് ഒരു രേഖീയ പ്രവർത്തനം പഠിക്കുന്നു അങ്ങനെ അത് ഒരു അജ്ഞാത X യ്ക്ക് Y പ്രവചിക്കാൻ കഴിയും നിങ്ങൾക്ക് അടിസ്ഥാനപരമായി ലൈൻ ഫിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ഡാറ്റ പോയിന്റുകൾ നൽകുന്നത് നിങ്ങൾക്ക് നന്നായി അറിയാം അതിനാൽ അതാണ് ലീനിയർ റിഗ്രഷൻ അതിനാൽ അതാണ് നാമെല്ലാവരും സ്ഥിതിവിവരക്കണക്കുകളിലും പഠിച്ചിട്ടുണ്ട് അതാണ് മേൽനോട്ടത്തിലുള്ള പഠന സാങ്കേതികവിദ്യയും അതിനാൽ അടിസ്ഥാനപരമായി ഈ വരി ഇവിടെയുണ്ട് അതിനാൽ Y B0 B1 e B0 ഇതാണ് ഇവിടെ തടസ്സം Y തടസ്സം ബി 1 അടിസ്ഥാനപരമായി ഈ ചരിവാണ് ഇ അടിസ്ഥാനപരമായി പിശകാണ് അതിനാൽ ലീനിയർ റിഗ്രഷന് വേണ്ടി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മികച്ച ഫിറ്റ് തരം ഉണ്ട് തീരുമാന വൃക്ഷങ്ങൾ പോലെയുള്ള വർഗ്ഗീകരണ സാങ്കേതികവിദ്യകൾ വളരെ സാധാരണമാണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നതുപോലെ അടിസ്ഥാനപരമായി നിങ്ങൾ വൃക്ഷാധിഷ്ഠിത വർഗ്ഗീകരണം നടത്തുന്നു കൂടാതെ ഈ മരത്തിൽ രണ്ട് വ്യത്യസ്ത തരം നോഡുകൾ ഉണ്ട് ഇവ അടിസ്ഥാനപരമായി തീരുമാന നോഡുകളും ഇല നോഡുകളുമാണ് അതിനാൽ ഈ നോഡുകൾ വെളുത്ത നിറമുള്ളവയാണ് ഈയിടെയുള്ള നോഡുകൾ ഈ നോഡുകൾ ഇല നോഡുകളാണ് അതിനാൽ ഒരു ആട്രിബ്യൂട്ടിന്റെ ചില മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി ഫലം പരിശോധിക്കാനോ തീരുമാനിക്കാനോ ഈ നോഡ് അടിസ്ഥാനപരമായി ഉപയോഗിക്കും അതേസമയം ഈ ഇല നോഡുകൾ സൂചിപ്പിക്കും ഒരു ഉദാഹരണത്തിന്റെ വർഗ്ഗീകരണം അതിനാൽ തീരുമാന വൃക്ഷം ഇങ്ങനെയാണ് അതിനാൽ തീരുമാന വൃക്ഷം വളരെ ജനപ്രിയമായ മേൽനോട്ടത്തിലുള്ള പഠന വിദ്യയാണ് മൂന്നാമത്തെ വിഭാഗം ശക്തിപ്പെടുത്തൽ പഠനമാണ് അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതം ആണ് ഇത് ഒരു പ്രത്യേക പരിതസ്ഥിതിക്ക് അനുയോജ്യമായ പെരുമാറ്റങ്ങൾ സ്വയമേവ പഠിച്ച് യന്ത്രങ്ങളെ അതിന്റെ പ്രകടനം മെച്ചപ്പെടുത്താൻ പ്രാപ്തരാക്കുന്നു അതിനാൽ അത് മുന്നോട്ടുപോകുന്ന രീതി ഇതുപോലെയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഏജന്റും ഈ ഏജന്റ് ഇടപെടുന്ന അല്ലെങ്കിൽ പരിതസ്ഥിതിയും ഉള്ള രണ്ട് വ്യത്യസ്ത എന്റിറ്റികൾ നമുക്ക് ലഭിക്കാൻ പോകുന്നു അതിനാൽ സാധാരണയായി സംഭവിക്കാൻ പോകുന്നത് ഏജന്റ് പരിസ്ഥിതിയുമായി ഇടപഴകിക്കൊണ്ട് പഠിക്കേണ്ടതുണ്ട് അതിനാൽ ഏജന്റ് അടിസ്ഥാനപരമായി പഠിക്കുന്നത് പരിസ്ഥിതി ഏജന്റുമായി ഇടപഴകുന്നതിലൂടെയാണ് അത് ചെയ്യേണ്ട ഏറ്റവും മികച്ച പ്രവർത്തനം എന്താണെന്ന് അറിയില്ല അതിനാൽ ഏജന്റ് ആദ്യം ഒരു നടപടി എടുക്കും ഈ പ്രത്യേക പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി ഈ പരിസ്ഥിതി അടിസ്ഥാനപരമായി പ്രതിഫലം നൽകും അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത പ്രവർത്തനത്തിന് ഈ പ്രത്യേക ഏജന്റിനെ ശിക്ഷിക്കാൻ പോകുന്നു അതിനാൽ ഒരു റിവാർഡ് പെനാൽറ്റി മെക്കാനിസം പരിസ്ഥിതിയിൽ നിന്ന് ഏജന്റിലേക്ക് ഒരു ഫീഡ്ബാക്ക് തിരികെ ഒഴുകുന്നു കൂടാതെ സംസ്ഥാനത്തെ മാറ്റത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഏജന്റിന് തിരികെ നൽകുന്നു അതിനാൽ റിവാർഡ് പെനാൽറ്റി മൂല്യവും സംസ്ഥാന വിവരങ്ങളും അടിസ്ഥാനമാക്കിയുള്ള ആ വിവരങ്ങൾ ഉപയോഗിച്ച് ഏജന്റ് അതിന്റെ അടുത്ത തിരഞ്ഞെടുപ്പ് നടത്തുന്നു ഇത് വളരെ പ്രധാനമാണ് അതിനാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ലൂപ്പ് ഉണ്ടെങ്കിലും ഏജന്റ് തിരഞ്ഞെടുക്കുന്ന അടുത്ത നടപടി ഈ രണ്ടിനെയും ആശ്രയിച്ചിരിക്കേണ്ടതാണെന്നുള്ള ശക്തിപ്പെടുത്തൽ പഠനത്തിൽ ഞങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ശക്തിപ്പെടുത്തൽ പഠനം ഇല്ല അതിനാൽ ചിലപ്പോൾ അത് ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റാണ് അതിനാൽ റിവാർഡ് പെനാൽറ്റിയുടെയും സംസ്ഥാന വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ അടുത്ത നടപടി തിരഞ്ഞെടുക്കണം അതിനാൽ നിങ്ങൾക്ക് ഒരുതരം റോബോട്ടോ മനുഷ്യനോ ഉണ്ടെന്നത് ഇതുപോലുള്ള ഒന്നാണ് അതിനാൽ മനുഷ്യരെപ്പോലെ തന്നെ നമ്മൾ ഇടപെടലുകളിലൂടെ പഠിക്കുന്നു ഒരു റോബോട്ടിനും അതേ റോബോട്ടിനെ ഇതിലൂടെ ചെയ്യാൻ കഴിയും ഇടപെടലുകൾ നിരീക്ഷണങ്ങൾ പരിസ്ഥിതിയിൽ നിന്നുള്ള ഫീഡ്ബാക്ക് അങ്ങനെ എന്താണെന്ന് അറിയാം അതിനാൽ അടിസ്ഥാനപരമായി റോബോട്ടിന് നിരീക്ഷണങ്ങളിലൂടെ പരിസ്ഥിതി റോബോട്ടിന് ഇത് തീയാണെന്ന് അറിയാനാകും ഇത് വെള്ളമാണ് അതിനാൽ പ്രായോഗികമായി ഈ ശക്തിപ്പെടുത്തൽ പഠനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ ശക്തിപ്പെടുത്തൽ പഠനം മേൽനോട്ടത്തിലുള്ള പഠനം മേൽനോട്ടമില്ലാത്ത പഠനം എന്നിവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അതിനാൽ നമുക്ക് ആദ്യം ശക്തിപ്പെടുത്തലും പഠനവും മേൽനോട്ടം വഹിക്കാം അതിനാൽ ശക്തിപ്പെടുത്തൽ പഠനത്തിൽ ഒരു ബാഹ്യ സൂപ്പർവൈസർ ഇല്ല എന്നാൽ മേൽനോട്ടത്തിലുള്ള പഠനത്തിൽ പരിസ്ഥിതിയെക്കുറിച്ച് അറിവുള്ള ചില ബാഹ്യ സൂപ്പർവൈസർ ഉണ്ട് അതിനാൽ ഈ പരിശീലന ഡാറ്റ സെറ്റ് ഉപയോഗപ്രദമാകുന്നത് അവിടെയാണ് ശക്തിപ്പെടുത്തൽ പഠനത്തിൽ ഒരു റിവാർഡ് പെനാൽറ്റി ഘടന ഉണ്ടായിരിക്കണം അതേസമയം മുൻ അറിവുള്ള ബാഹ്യ സൂപ്പർവൈസർ ഇതിനകം മേൽനോട്ടത്തിലുള്ള പഠനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മേൽനോട്ടത്തിൽ ഒരു റിവാർഡ് ഫംഗ്ഷൻ ആവശ്യമില്ല ശക്തിപ്പെടുത്തൽ പഠനവും മേൽനോട്ടമില്ലാത്തതും തമ്മിലുള്ള താരതമ്യം ശക്തിപ്പെടുത്തൽ പഠനത്തിൽ ഇൻപുട്ടിനും ഔട്ട്ട്ട്പുട്ടിനും ഇടയിൽ ഒരു മാപ്പിംഗ് ഉണ്ട് അതേസമയം മേൽനോട്ടമില്ലാത്ത പഠനത്തിൽ അത്തരം മാപ്പിംഗ് ഇല്ല ശക്തിപ്പെടുത്തൽ പഠനത്തിൽ ഏജന്റ് അടിസ്ഥാനപരമായി അനുബന്ധ പ്രവർത്തനങ്ങളുടെ നിരന്തരമായ ഫീഡ് ബാക്കുകളിൽ നിന്ന് ഒരു വിജ്ഞാന ഗ്രാഫ് നിർമ്മിക്കുന്നു അതേസമയം ഏജന്റ് അടിസ്ഥാനപരമായ പാറ്റേൺ കണ്ടെത്തുന്നതിൽ മേൽനോട്ടമില്ലാത്ത പഠനം ഇവിടെ വ്യത്യസ്തമാണ് അതിനാൽ അടിസ്ഥാനപരമായി പാറ്റേൺ വെളിപ്പെടുത്താൻ ഇത് ശ്രമിക്കുന്നു അതിനാൽ ശക്തിപ്പെടുത്തൽ പഠനവും മേൽനോട്ടമില്ലാത്ത പഠനവും തമ്മിലുള്ള വ്യത്യാസം അതാണ് അതിനാൽ അടിസ്ഥാനപരമായി ശക്തിപ്പെടുത്തൽ പഠനത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഒരു യന്ത്രമുണ്ട് എന്നതാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് പഠിക്കുന്നതിനുള്ള ഒരു സാമ്യം ഞാൻ നിങ്ങൾക്ക് നൽകും നിങ്ങൾക്ക് ഒരു യന്ത്രമുണ്ട് നിങ്ങൾക്ക് ഈ പരിതസ്ഥിതി ഉണ്ട് ഈ പരിതസ്ഥിതി നമുക്ക് ഒരു അധ്യാപകനെപ്പോലെയാകാം അതേസമയം ഈ യന്ത്രം ഒരു വിദ്യാർത്ഥിയെപ്പോലെയാണെന്ന് നമുക്ക് ചിന്തിക്കാനാകും അതിനാൽ അടിസ്ഥാനപരമായി ഇത് വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിലുള്ള ഒരു പഠന രീതിയാണ് തുടക്കത്തിൽ വിദ്യാർത്ഥിക്ക് ഒന്നും അറിയില്ല അധ്യാപകന് അറിയാം അതിനാൽ അടിസ്ഥാനപരമായി ആ അറിവ് വിദ്യാർത്ഥിക്ക് കൈമാറണം പക്ഷേ വിദ്യാർത്ഥിക്ക് ആ അറിവ് അതുപോലെ ലഭിക്കില്ല വിദ്യാർത്ഥിക്ക് ചോദ്യങ്ങൾ ചോദിക്കേണ്ടിവരും ഒരു നിശ്ചിത മാർക്ക് അല്ലെങ്കിൽ പിഴ മൂല്യം ഉപയോഗിച്ച് ടീച്ചർ അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയും അതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി വ്യത്യസ്ത തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നു വിദ്യാർത്ഥി ഒരു നടപടി എടുക്കുന്നു ടീച്ചർ നമ്മോട് ചോദിക്കുന്നു ടീച്ചർ ഒരു നിറം കാണിക്കുന്നു ടീച്ചർ അത് ചോദിക്കുന്നു ഇത് വെളുത്തതാണ് അടിസ്ഥാനപരമായി ഇത് വെളുത്ത കറുത്തതാണോ അതോ എന്താണെന്നറിയാത്ത വിദ്യാർത്ഥി അത് ചാരനിറമാണെന്ന് ചില സാധ്യതകളോടെ പറയും അതിനാൽ ഇത് ഒരു പ്രവർത്തനം തിരഞ്ഞെടുക്കുകയും അധ്യാപകൻ അടിസ്ഥാനപരമായി അപ്പോൾ ടീച്ചർക്ക് അറിയാം അത് ചാരനിറമല്ല പക്ഷേ അത് വെളുത്തതാണ് അപ്പോൾ അധ്യാപകൻ അടിസ്ഥാനപരമായി ഒരു നിശ്ചിത പെനാൽറ്റി സാധ്യതയോടെ വിദ്യാർത്ഥിയെ ശിക്ഷിക്കും പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നു തുടർന്ന് അധ്യാപകനുമായി ഇടപഴകുന്നതിലൂടെ ക്രമേണ ശരിയായ മൂല്യത്തിലേക്ക് മാറാൻ പോകുന്ന വിദ്യാർത്ഥിയെ ഇത് ക്യൂ ലേണിംഗ് എന്നും വിളിക്കുന്നു ക്യൂ ലേണിംഗ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ശക്തിപ്പെടുത്തൽ പഠന സംവിധാനമുണ്ട് ഇത് കൂടുതലോ കുറവോ മൊത്തത്തിലുള്ള ആശയവും ക്യു ലേണിംഗുമായി സാദൃശ്യവുമാണ് ഇത് ഒരു പ്രത്യേക തരം ശക്തിപ്പെടുത്തൽ പഠനമാണ് ഇത് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ IIoT ന് വ്യത്യസ്ത മെഷീൻ ലേണിംഗ് ടെക്നിക്കുകൾ നിലവിലുണ്ട് അതിനാൽ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനും മെഷീൻ ലേണിംഗിന്റെ പ്രയോജനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനും ഐഐഒടിയെ കൂടുതൽ കാര്യക്ഷമവും ഉപയോഗപ്രദവുമാക്കുന്നതിന് നിങ്ങൾക്ക് ഐഐഒടിയിൽ മെഷീൻ ലേണിംഗ് ഉപയോഗിക്കാം ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി സോഷ്യൽ മീഡിയ തുടങ്ങി നിരവധി വ്യവസായങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾ അവരുടെ പ്രക്രിയകൾ മെച്ചപ്പെടുത്തുന്നതിനായി മെഷീൻ ലേണിംഗിനൊപ്പം IIoT ഉപയോഗിക്കുന്നു അതിനാൽ വൈദ്യശാസ്ത്ര മേഖലയിലുള്ള കമ്പനി ഫൈസർ രോഗികൾക്ക് വ്യക്തിഗത ചികിത്സ നൽകുന്നു അവിടെ മെഷീൻ ലേണിംഗും ഉപയോഗിക്കുന്നു ധനകാര്യത്തിൽ വഞ്ചന കണ്ടെത്തുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അക്കൌണ്ട് ഉടമകളെ ലക്ഷ്യമിടുന്നതിനും യന്ത്ര പഠന സാങ്കേതിക വിദ്യകളുള്ള IIoT ഉപയോഗപ്പെടുത്താം റീട്ടെയിൽ ഉൽപന്ന ശുപാർശ അടിസ്ഥാനപരമായി ഈ ശുപാർശ എന്നിവ മെഷീൻ ലേണിംഗിനെ അടിസ്ഥാനമാക്കി ശുപാർശ ചെയ്യുന്ന സംവിധാനങ്ങളും മറ്റും അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ റീട്ടെയിൽ മേഖലയിലെ ഉൽപ്പന്ന ശുപാർശയ്ക്കോ ഉപഭോക്തൃ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ അവിടെ മെഷീൻ ലേണിംഗ് ടെക്നിക്കുകളും ഉപയോഗിക്കാം യാത്രാ മേഖലയിലും ചലനാത്മക വില ക്രമീകരണത്തിനായുള്ള മെഷീൻ ലേണിംഗുള്ള IIoT ട്രിപ്പ് അഡ്വൈസർ ആയി പ്രവർത്തിക്കാൻ വികാര വിശകലനത്തിന് മെഷീൻ ലേണിംഗ് സംയോജിപ്പിച്ച് IIoT ഉപയോഗിക്കാം സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത മുഖങ്ങളെ ടാഗുചെയ്യുന്നതിന് ഫേസ്ബുക്ക് കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നു ഇത് നമ്മളിൽ മിക്കവരും ഇതിനകം അനുഭവിച്ചതാണ് അതിനാൽ ഫെയ്സ്ബുക്ക് അടിസ്ഥാനപരമായി ഈ ടാഗിംഗ് പലതും ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കാണുന്നു പക്ഷേ അത് ANN കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് ഒരു ജനപ്രിയ മെഷീൻ ലേണിംഗ് ടെക്നിക്കാണ് ജോലികൾ നിർദ്ദേശിക്കുന്നതിന് ലിങ്ക്ഡ്ഇൻ മെഷീൻ ലേണിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു സങ്കീർണ്ണമായ വിശകലന പ്രക്രിയകൾ തത്സമയ ധാരണ നൽകൽ അവസ്ഥ നിരീക്ഷണത്തിനുള്ള കഴിവ് പ്രവചന വിശകലനം വിവിധ മെഷീൻ ലേണിംഗ് ടെക്നിക്കുകളുടെ സഹായത്തോടെ ശുപാർശകൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന മറ്റൊരു ഉദാഹരണമാണ് തിങ്വർക്സ് പ്ലാറ്റ്ഫോം മറ്റൊരു കമ്പനി ടൌമെറ്റിസ് അവർ എണ്ണ വാതക ഇടത്തിലാണ് അതിനാൽ തത്സമയ ഡാറ്റ ആക്സസ് ചെയ്യാനും അപാകതകൾ പ്രവചിക്കാനും അവർ എണ്ണ വാതക എഞ്ചിനീയർമാരെ സഹായിക്കുന്നു അതിനാൽ IIoT യുമായി ചേർന്ന് മെഷീൻ ലേണിംഗും പലപ്പോഴും മെഷീൻ ലേണിംഗും ഉപയോഗിക്കുന്നതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഇവ അതിനാൽ ഇവിടെയാണ് വിവിധ വ്യവസായ ക്രമീകരണങ്ങളിലും മെഷീൻ ലേണിംഗിലും IIoT യുമായി ചേർന്ന് മെഷീൻ ലേണിംഗ് ഉപയോഗപ്രദമാകുന്നത് ഒന്ന് സൂപ്പർവൈസുചെയ്തതും മേൽനോട്ടമില്ലാത്തതും ശക്തിപ്പെടുത്തുന്നതുമായ പഠനമാണ് കൂടാതെ വ്യത്യസ്തമായ മറ്റ് മെഷീൻ ലേണിംഗ് ടെക്നിക്കുകളും ഉണ്ട് അതിനാൽ മെഷീൻ ലേണിംഗിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലുള്ള ധാരണ നേടാൻ നിങ്ങളെ സഹായിക്കുന്ന ഈ വ്യത്യസ്ത റഫറൻസുകളിൽ ചിലത് ഇവയാണ് മെഷീൻ ലേണിംഗിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ശരിക്കും താൽപ്പര്യമുണ്ടെങ്കിൽ മെഷീൻ ലേണിംഗിനെക്കുറിച്ചുള്ള ചില പുസ്തകങ്ങളിലൂടെ പോകാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാൽ മെഷീൻ ലേണിംഗിൽ ഉപയോഗിക്കാവുന്ന വ്യത്യസ്ത അൽഗോരിതങ്ങളും രീതികളും അറിയാൻ നിങ്ങൾക്ക് യഥാർത്ഥ ജിജ്ഞാസയും ഇല്ലെങ്കിൽ വിവരങ്ങൾ നിങ്ങൾക്ക് മതിയാകും കൂടാതെ നിങ്ങൾക്ക് കൂടുതൽ താൽപ്പര്യമുണ്ടെങ്കിൽ വ്യത്യസ്ത സാഹിത്യങ്ങളിലൂടെയും പ്രത്യേകിച്ച് മെഷീൻ ലേണിംഗ് പുസ്തകങ്ങളിലൂടെയും പോകാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഐഐഒടിക്കായുള്ള മെഷീൻ ലേണിംഗ് ആമുഖത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ അവസാനത്തോടെ ഇത് അവസാനിക്കുന്നു